ഇപ്പോൾ നമ്മൾ ചില VLSI ഡിസൈൻ സ്റ്റൈൽസുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ പിന്തുടരുന്ന മൊഡ്യൂളുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിവിധ ഫിസിക്കൽ ഡിസൈൻ ടെക്നിക്കുകളും അൽഗോരിതവും മനസ്സിലാക്കാൻ ഇത് ഉപയോഗപ്രദമാകും ഐ ഡിസൈനിന്റെ ആദ്യ ഭാഗത്ത് ഡിസൈൻ സ്റ്റൈൽസുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലതിനെക്കുറിച്ചും അവ ഡിസൈൻ പ്രശ്നങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഇവിടെ സംസാരിക്കും ഇനി നമുക്ക് ആദ്യം വി ഐ ഡിസൈൻ സൈക്കിൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യ പ്രഭാഷണ വേളയിലും ഞാൻ പ്രാധാന്യം നൽകിപ്പറഞ്ഞു സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യകളുടെ പുരോഗതിയോടെ ഇന്ന് നമുക്ക് വളരെയധികം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു ഒരു ഉപകരണത്തിൽ അത് ഒരു ബില്യൺ ട്രാൻസിസ്റ്ററുകളിലേക്കും അതിനുമുകളിലേക്കും പോകാം രണ്ടാമതായി ഉയർന്ന പ്രകടനവും കുറഞ്ഞ പവറും ആവശ്യപ്പെടുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് കാരണം ഇന്ന് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മിക്ക ആപ്ലിക്കേഷനുകളും മൊബൈൽ മൊബൈൽ ഫോണുകൾ പോലുള്ള ഹാൻഡ്ഹെൽഡ് ഉപകരണങ്ങളാണ് അതിനാൽ പ്രകടനത്തിനും വൈദ്യുതി ഉപഭോഗത്തിനും രണ്ട് പ്രധാനപ്പെട്ട ആവശ്യകതകളും ഉണ്ട് തീർച്ചയായും മാർക്കറ്റ് കോമ്പറ്റിഷൻ വളരെ ഉയർന്നതാണ് അതിനാൽ ഇന്ന് ഒരു നിർമ്മാതാക്കൾക്കും ഡിസൈനുകൾ സൃഷ്ടിക്കുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ധാരാളം സമയം ചെലവഴിക്കാൻ കഴിയില്ല അതിനാൽ ഇത് ചെലവിനെ നേരിട്ട് ബാധിക്കും അതിനാൽ മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്പെസിഫിക്കേഷൻ മുതൽ ഒരു ചിപ്പിന്റെ അന്തിമ ഫാബ്രിക്കേഷൻ വരെ നമുക്ക് ഒരു മാനുവൽ അപ്പ്രോച്ച് പിന്തുടരാം ഇന്ന് കാര്യങ്ങൾ മാറി ഇപ്പോൾ സിസ്റ്റങ്ങളുടെ വലിയ വലിപ്പവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളുടെ സങ്കീർണ്ണതയും കാരണം ഓട്ടോമേഷൻ നിർബന്ധമാണ് ഇത് ഇനി ഒരു തിരഞ്ഞെടുപ്പല്ല അതിനാൽ ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ വി ഐ ഡിസൈൻ ഫ്ലോ നോക്കുന്നത് ഒരു ഫിസിക്കൽ ഡിസൈനും അതുപോലുള്ള കാര്യങ്ങളും ഇപ്പോൾ വി ഐ ഡിസൈൻ സൈക്കിളിലെ മറ്റൊരു കാര്യം അതിനാൽ ഇവിടെ നമ്മൾ ഘട്ടങ്ങൾ അല്പം വ്യത്യസ്തമായി പരാമർശിച്ചു അതിനാൽ നമ്മൾ സിസ്റ്റം സ്പെസിഫിക്കേഷനോടെ ആരംഭിക്കുമെന്ന് നമ്മൾ പറയുന്നു നമ്മൾ പ്രവർത്തനത്തിലൂടെ കടന്നുപോകുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്ഫർ ലെവൽ ഡിസൈൻ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ ഒന്നാണ് ഡിസൈൻ രജിസ്റ്ററുകൾ ALU കൾ മൾട്ടിപ്ലക്സറുകൾ തുടങ്ങിയവ അടങ്ങുന്ന ഡിസൈനുകൾ അതിനാൽ ഇത് ഡിസൈനിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് അപ്പോൾ ആ ഡിസൈൻ ലോജിക് ലെവൽ ഡിസൈനിലേക്ക് പരിഷ്കരിക്കാനാകും അവിടെ ഞങ്ങളുടെ നെറ്റ്ലിസ്റ്റിലെ ഗേറ്റുകളെക്കുറിച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പുകളെക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ ആ ആർടിഎൽ ലെവൽ ഘടകങ്ങൾ ഗേറ്റ് ലെവൽ നെറ്റ്ലിസ്റ്റിലേക്ക് വിഘടിപ്പിച്ചിരിക്കുന്നു ഒരു മൾട്ടിപ്ലക്സർ ഗേറ്റുകൾ ഉപയോഗിച്ചാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മനസിലാക്കുക ഫ്ലിപ്പ് ഫ്ലോപ്പ് ഗേറ്റുകൾ ഉപയോഗിച്ചും സാധ്യമാക്കുന്നു അതിനാൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ഉണ്ട് സർക്യൂട്ട് ഡിസൈൻ എന്നാൽ ഇത് ട്രാൻസിസ്റ്റർ ലെവൽ ഡിസൈൻ ആണ് ഇപ്പോൾ ഈ നിലയിലുള്ള സാധാരണ CMOS ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് ഇപ്പോൾ എല്ലാ ഗേറ്റുകളും അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും തിരിച്ചറിഞ്ഞു അതിനാൽ ഇപ്പോൾ നമുക്ക് ധാരാളം എൻമോസ് പിമോസ് ട്രാൻസിസ്റ്ററുകളും അവയുടെ ഇന്റർകണക്ഷൻസും ഉണ്ട് അവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ട്രാൻസിസ്റ്ററുകളുടെ നെറ്റ്ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്ററുകളുടെ ഈ നെറ്റ്ലിസ്റ്റ് ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾ മെർജ് ചെയ്ത ഘട്ടങ്ങളുടെ അടുത്ത ക്രമം കൂടാതെ ഫിസിക്കൽ ഡിസൈൻ ഒരൊറ്റ മാക്രോ ഘട്ടമായി കാണിച്ചിരിക്കുന്നു ഈ ആണ് നമ്മൾ നോക്കുന്ന ഈ കോഴ്സിലെ പ്രധാന ചർച്ചാവിഷയം അതിനാൽ ഈ ഫിസിക്കൽ ഡിസൈനിൽ തന്നെ നിരവധി വ്യത്യസ്ത ഘട്ടങ്ങൾ അടങ്ങിയിരിക്കും അത് ഒരു നെറ്റ്ലിസ്റ്റ് ഇൻപുട്ടായി എടുക്കുകയും നമ്മൾ ഒരു കൂട്ടം ഇന്റർമീഡിയറ്റ് ഘട്ടങ്ങളിലൂടെ കടന്നുപോകുകയും ഫാബ്രിക്കേഷന് തയ്യാറായ ഒരു ഫൈനൽ വേർഷൻ സൃഷ്ടിക്കുകയും ചെയ്യും നിങ്ങളുടെ സിസ്റ്റത്തിന്റെയോ നിങ്ങളുടെ ഡിസൈനിന്റെയോ ഒരു ഫൈനൽ സ്പെസിഫിക്കേഷൻ അത് ഇപ്പോൾ ഫൈനൽ ഫാബ്രിക്കേഷനായി ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലേക്ക് നേരിട്ട് അയയ്ക്കാം അതിനാൽ ഞാൻ ഇവിടെ കാണിച്ച ഫിസിക്കൽ ഡിസൈന്റെ ഉദ്ദേശ്യം അതാണ് തീർച്ചയായും മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് ഫാബ്രിക്കേഷൻ ചെലവേറിയ ഘട്ടമായതിനാൽ നിങ്ങൾ ഫാബ്രിക്കേഷനിലേക്ക് പോകുന്നതിനുമുമ്പ് നോക്കേണ്ടതുണ്ട് അതിനാൽ അവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ ധാരാളം അടയ്ക്കേണ്ടിവരും അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഫാബ്രിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസൈൻ വെരിഫിക്കേഷനുകൾ ലേ ഔട്ട് വെരിഫിക്കേഷനുകൾ ഡിസൈൻ സൈൻ ഓഫ് എന്നിവയുടെ വിവിധ ചക്രങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് നിങ്ങളുടെ ചിപ്പുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തതിനുശേഷം നിങ്ങൾ അവയെ ഡൈയിൽ പാക്കേജ് ചെയ്യണം നിങ്ങൾ അവ ശരിയായി പരീക്ഷിക്കണം എന്തെങ്കിലും ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവ ഡീബഗ് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ചിപ്പുകൾ ശരിയായി പ്രവർത്തിക്കാത്തത് അതിനാൽ ഡിസൈനിൽ എന്തെങ്കിലും പിശകുകളോ ഏററുകളോ ഉണ്ടായിരുന്നോ ഫാബ്രിക്കേഷൻ സമയത്ത് എന്തെങ്കിലും പിശക് ഉണ്ടോ തുടങ്ങിയവ അതിനാൽ അവിടെ പരാജയങ്ങളുടെ കാരണം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതാണ് വിഎൽഎസ്ഐ ഡിസൈൻ സൈക്കിൾ ഇപ്പോൾ ഫിസിക്കൽ ഡിസൈന്റെ ഈ മാക്രോ ഘട്ടത്തിലേക്ക് മടങ്ങിവരുമ്പോൾ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങളും ഈ കോഴ്സിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം അതിനാൽ ഫിസിക്കൽ ഡിസൈൻ ഞാൻ ആവർത്തിക്കുന്നത് ഒരു സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് അന്തിമ ലേ ഔട്ടിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു സീക്വെൻസാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഘട്ടങ്ങളാണ് അത് ഞാൻ പറഞ്ഞതുപോലെ ദീർഘചതുരങ്ങളുടെ കൂട്ടമാണ് ചിലപ്പോൾ ഇവയെ ജോമെട്രിക് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ജോമെട്രിക് ഡിസ്ക്രിപ്ഷൻ നേരിട്ട് ചിപ്സ് നിർമ്മിക്കാൻ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലേക്ക് അയയ്ക്കാവുന്നതാണ് സാധാരണയായി ഈ ജോമെട്രിക് ഡിസ്ക്രിപ്ഷൻ GDS2 പോലുള്ള ഒരു സാധാരണ ഫയലിന്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കും അതിനാൽ ഈ ഫയലുകൾ എങ്ങനെ കാണപ്പെടുന്നുവെന്നും അവയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നും അർത്ഥമാക്കുന്നു കൂടാതെ ഫിസിക്കൽ ഡിസൈൻ സൈക്കിളിൽ അടുത്ത കുറച്ച് കോഴ്സ് മൊഡ്യൂളുകളിൽ ഈ കോഴ്സിന്റെ ഭാഗമായി പാർട്ടീഷനിംഗ് ഫ്ലോർ പ്ലാനിംഗ് പ്ലേസ്മെന്റ് റൂട്ടിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ അല്ലെങ്കിൽ സർക്യൂട്ട് നോഡുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എങ്ങനെയാണ് നടത്തുന്നത് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച നെറ്റ്ലിസ്റ്റിൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് വളരെ പ്രധാനമാണ് അതിനാൽ നമ്മുടെ ടൈമിംഗ് റിക്വ്യർമെൻറ്സ് നിറവേറ്റാൻ അതിന് കഴിയുമോ വൺ ജിഗാ ഹെർട്സ് ക്ലോക്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഡിസൈൻ സൃഷ്ടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് രൂപകൽപ്പന ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് 800 മെഗാ ഹെർട്സ് വരെ മാത്രമേ പോകാൻ കഴിയൂ അതിനാൽ ചില ട്യൂണിംഗ് ഉണ്ടായിരിക്കണം ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുവഴി നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ക്രിട്ടിക്കൽ പാർട്സ് തിരിച്ചറിയുന്നതിനും ടൈമിംഗ് ഡീലേസ് തിരിച്ചറിയുന്നതിനും ഈ കാര്യങ്ങൾ വളരെ ബോധപൂർവ്വവും ബുദ്ധിപരമായും എടുക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഘട്ടമാണ് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് തീർച്ചയായും സിഗ്നൽ ഇന്റെഗ്രിറ്റിയും ക്രോസ്സ്റ്റാക്കും VLSI രൂപകൽപ്പനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാരണം സവിശേഷതകളുടെ വലിയ വലിപ്പം കാരണം അവ വളരെ ഇടുങ്ങിയതാണ് അവ വളരെ അടുത്താണ് അതിനാൽ ഒരു വരിയിൽ ചില സിഗ്നൽ മാറ്റങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് വളരെ അടുത്ത് ഓടുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ മറ്റേ വരിയിൽ കുറച്ച് കപ്ലിംഗ് ഉണ്ടാകും അതിനാൽ ചില ക്രോസ്റ്റാക്ക് പ്രശ്നങ്ങൾ ചിത്രത്തിലേക്ക് വരാം അതിനാൽ സിഗ്നൽ ഇന്റഗ്രിറ്റി ക്രോസ്സ്റ്റാക്ക് മോഡലിംഗും ചിപ്പ് നിർമ്മിക്കുമ്പോൾ ഞാൻ സൃഷ്ടിച്ച ഫൈനൽ ലേഔട്ട് ഇവയിൽ നിന്ന് പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇവ വളരെ പ്രധാനമാണ് അതിനാൽ സിഗ്നൽ ഇന്റെഗ്രിറ്റിയും ക്രോസ്റ്റാക്ക് അനാലിസിസും നമ്മൾ സംസാരിക്കേണ്ട ഒന്നാണ് ഒടുവിൽ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ലേഔട്ട് പരിശോധിക്കാൻ വിവിധ OS കളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും സൈൻ ഓഫ് ചെയ്യുക എന്നതിനർത്ഥം നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ സന്തുഷ്ടരാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നതിനുള്ള ഈ ഘട്ടമായ ഫാബ്രിക്കേഷനുള്ള കാര്യം നൽകുന്നു അതിനാൽ സൈൻ ഓഫ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം സൈൻ ഓഫ് ചെയ്തതിനുശേഷം എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ചിലവ് സൂചിപ്പിക്കും കാരണം ഫാബ്രിക്കേഷൻ തന്നെ വളരെ ചെലവേറിയ കാര്യമാണ് നിങ്ങൾ ഫാബ്രിക്കേഷൻ നടത്തുകയും പിന്നീട് ലേ ഔട്ടിന്റെ രൂപകൽപ്പനയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങളുടെ പണം പാഴാക്കുന്നത് നിങ്ങൾ തന്നെ ക്രമീകരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ ചില ഡിസൈൻ സ്റ്റൈൽസിനെക്കുറിച്ചു സംസാരിക്കും അപ്പോൾ ഡിസൈൻ സ്റ്റൈൽസ് എന്തൊക്കെയാണ് നമ്മുടെ വി ഐ ചിപ്പ് സൃഷ്ടിക്കാൻ കഴിയുന്ന വിവിധ വിശാലമായ മാർഗങ്ങളാണ് ഡിസൈൻ സ്റ്റൈൽസ് ഇന്ന് വളരെ വിശാലമായി പറഞ്ഞാൽ ആളുകൾ ഫീൽഡ് പ്രോഗ്രാമ്ബിൾ ഗേറ്റ് അറേ ഗേറ്റ് അറേ സ്റ്റാൻഡേർഡ് സെൽ പോലുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ചിപ്പുകളിൽ അവരുടെ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നു ഇതിനെ സെമി കസ്റ്റം ഡിസൈൻ അല്ലെങ്കിൽ ഫുൾ കസ്റ്റം ഡിസൈൻ എന്നും വിളിക്കുന്നു നമുക്ക് ഈ വ്യത്യസ്ത ഡിസൈൻ സ്റ്റൈൽസ് വെവ്വേറെ നോക്കാം അതുവഴി ഈ സമീപനങ്ങളുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാകാം എന്തുകൊണ്ട് എപ്പോൾ ഒരാൾ ഒരു സമീപനം ഉപയോഗിക്കണം ഞാൻ അർത്ഥമാക്കുന്നത് മറ്റൊന്നിനേക്കാൾ എന്നാണ് അതിനാൽ നമുക്ക് വ്യത്യാസങ്ങൾ നോക്കാം അതിനാൽ ഒരു പ്രത്യേക ഡിസൈൻ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് നിരവധി പ്രശ്നങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു തീർച്ചയായും ഹാർഡ്വെയർ കോസ്ററ് FPGA ഫീൽഡ് പ്രോഗ്രാമ്ബിൾ ഗേറ്റ് അറേ ഏറ്റവും ചീപ്പസ്റ് ആണ് എന്നാൽ ഈ സർക്യൂട്ട് ഡിലെ ഒരുപക്ഷേ ഏറ്റവും ദൈർഘ്യമേറിയതാണ് അതിനാൽ ഹാർഡ്വെയർ കോസ്ററ് സർക്യൂട്ട് ഡിലെ കൂടാതെ നിങ്ങളുടെ ഡിസൈൻ സൃഷ്ടിക്കാനും ഹാർഡ്വെയറിലേക്ക് മാപ്പ് ചെയ്യാനും ആവശ്യമായ മുഴുവൻ സമയവും ഇവയെല്ലാം പ്രധാനമാണ് നമുക്ക് സമയം കുറയ്ക്കേണ്ട ചില ആപ്ലിക്കേഷനുകളോ ചില സാഹചര്യങ്ങളോ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും മറ്റ് രണ്ട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഡിലെ വളരെ പ്രധാനപ്പെട്ട ചില ആപ്ലിക്കേഷനുകൾ ഉണ്ട് നിങ്ങൾ ഡിലെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഡിസൈനിനായി നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി നൽകാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി പലപ്പോഴും പരസ്പരവിരുദ്ധമായ ഈ ഡിസൈൻ പാരാമീറ്ററുകൾക്കിടയിലുള്ള ഒരു ട്രേഡ്ഓഫ് tradeoff ആണ് അതിനാൽ ഈ പാരാമീറ്ററുകൾക്കിടയിൽ പരിചയസമ്പന്നരായ ഡിസൈനർമാർക്ക് ശരിയായ ട്രേഡ്ഓഫ് നടത്താൻ കഴിയും ഇപ്പോൾ നമുക്ക് അടിസ്ഥാന ആശയം നോക്കാം അല്ലെങ്കിൽ അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ ഫീൽഡ് പ്രോഗ്രാമ്ബിൾ ഗേറ്റ് അറേകൾക്കു പിന്നിലെ ആശയം നന്നായി ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന പേരിൽ ഫീൽഡ് പ്രോഗ്രാമബിൾ എന്നാൽ ഫീൽഡിൽ പ്രോഗ്രാമബിൾ ആയ ഡിവൈസ് ആണ് ഇപ്പോൾ ഒരു ഡിസൈനർ എന്ന നിലയിൽ എന്റെ ഫീൽഡ് ഏതാണ് എന്റെ ഫീൽഡ് എന്റേ ലബോറട്ടറി ആണ് അതിനാൽ ഒരു ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ അല്ലെങ്കിൽ FPGA എന്ന് ചുരുക്കത്തിൽ വിളിക്കുന്നു എനിക്ക് ഇത് എന്റെ ലാബിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയണം ചില വിലയേറിയ ഫാബ്രിക്കേഷനുകളിലൂടെ പോകേണ്ടതില്ല എന്റെ ചിപ്പ് അവിടെ ഫാബ്രിക്കേറ്റ് ചെയ്യാം മറിച്ച് എനിക്ക് സ്വയം FPGA ഘടകത്തിന്റെ ഒരു ചിപ്പ് വാങ്ങാം അത് എന്റെ ലാബിലേക്ക് കൊണ്ടുവരാം അവിടെ ആവശ്യമായ പ്രോഗ്രാമിംഗ് എനിക്ക് ചെയ്യാൻ കഴിയും ആ FPGA ചിപ്പിൽ എനിക്ക് ആവശ്യമുള്ള സർക്യൂട്ട് ലഭിക്കും ഇങ്ങനെയാണ് FPGA അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത് അത് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് എങ്ങനെ പ്രോഗ്രാമബിലിറ്റി കൈവരിക്കും ശരി ഞാൻ പ്രത്യേക വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം ഇത് ഈ പ്രത്യേക കോഴ്സിന്റെ ഈ പരിധിയിൽ നിന്ന് അല്പം പുറത്താണ് എന്നാൽ ഞാൻ പ്രധാന പോയിന്റുകളേയോ സവിശേഷതകളേയോ കുറിച്ച് സംസാരിക്കും അതിനാൽ ഒരു FPGA ലോജിക് സെൽസിന്റെ ഒരു അറേ ഉൾക്കൊള്ളുന്നു ഈ അറേ അർത്ഥമാക്കുന്നത് ഒരു വലിയ സംഖ്യ അത്തരം ആയിരക്കണക്കിന് ലോജിക് സെല്ലുകൾ ഉണ്ടായിരിക്കാം അവ റൂട്ടിംഗ് വഴി അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാവുന്ന ഇന്റർകണക്ഷൻ ചാനലുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ഈ ലോജിക് സെല്ലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റാവുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ലോജിക് സെല്ലുകൾ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചില ഗേറ്റുകൾ മാപ്പ് ചെയ്യാനോ ലോജിക് സെല്ലുകളിലേക്ക് രൂപകൽപ്പന ചെയ്യാനോ കഴിയും തുടർന്ന് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കാനാകും അതിനാൽ FPGA ൽ വ്യത്യസ്ത തരം സെല്ലുകൾ ഉണ്ട് ഈ സിഗ്നലുകൾ പിന്നുകളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ അനുവദിക്കുന്ന പ്രത്യേക ഇൻപുട്ട് ഔട്ട്പുട്ട് സെല്ലുകൾ ഉണ്ട് ചിലത് ഇൻപുട്ട് ചെയ്യും ചിലത് വ്യത്യസ്ത ആവശ്യകതകളുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ചിലത് ചില പ്രത്യേക ഡിറക്ഷനിലൂടെ ഇൻപുട്ട് മാത്രം അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാത്രം ചെയ്യും ചില ട്രൈ സ്റ്റേറ്റ് കണ്ട്രോൾ സ്ട്രോബുകൾക്ക് ധാരാളം ആവശ്യകതകളുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ പ്രത്യേക IO സെല്ലുകൾ ഉണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾക്ക് ലോജിക് സെല്ലുകളും ഉണ്ടാകും അതിനാൽ ഈ ലോജിക് സെല്ലുകൾ സാധാരണയായി ലുക്ക്അപ്പ് ടേബിളുകൾ അല്ലെങ്കിൽ LUT എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ഉപയോഗിച്ച് നടപ്പിലാക്കുന്നുവെന്ന് നമ്മൾ പിന്നീട് കാണും ഇത് പ്രോഗ്രാമബിൾ റൂട്ടിംഗ് ചാനലുകളാണ് അവ സ്റ്റാറ്റിക് റാം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഞാൻ പരാമർശിക്കുന്ന ആന്റി ഫ്യൂസ് ഘടകങ്ങൾ ഉപയോഗിച്ചോ സൃഷ്ടിച്ചതാണ് പിന്നീട് ഞാൻ അതേപ്പറ്റി പറയാം ഇവ രണ്ട് വ്യത്യസ്ത സാങ്കേതികവിദ്യകളാണ് ചില FPGA നിർമ്മാതാക്കൾ അവരുടെ ഡിസൈനുകളിൽ വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു Xilinx Altera Actel തുടങ്ങിയ നിരവധി വെണ്ടർമാരിൽ നിന്ന് FPGA ചിപ്പുകൾ ലഭ്യമാണ് അവർ FPGA ചിപ്പുകൾ നിർമ്മിക്കുന്നു ഈ ഉൽപ്പന്നങ്ങൾ അവയുടെ കേപ്പബിലിറ്റിയിൽ വ്യത്യാസപ്പെടുന്നു കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടൈം യൂസ് അല്ലെങ്കിൽ ബിഗിന്നേഴ്സ് യൂസ് എന്നാണ് പരിശീലന ആവശ്യങ്ങൾക്കായി ക്ലാസുകളിലെ ലാബുകളിൽ അവ ഉപയോഗിക്കാൻ കഴിയും അവ ശരിക്കും വിലകുറഞ്ഞതാണ് കുറച്ചു ആയിരങ്ങൾ ചിലവ് ഉണ്ട് പക്ഷേ ജിഗാ ഹെർട്സ് ഓർഡറിന്റെ ക്ലോക്ക് ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ നൂതനമായ FPGA ചിപ്പുകൾ ഉണ്ട് അവർക്ക് വളരെ ഉയർന്ന ത്രൂപുട്ട് നൽകാൻ കഴിയും അവ ശരിക്കും കട്ടിംഗ് എഡ്ജ് ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയും അല്ലാത്തപക്ഷം നിങ്ങൾ ചില ചിപ്പുകൾ ഉപയോഗിക്കുമായിരുന്നു ഇത് ASICs എന്ന് വിളിക്കപ്പെടുന്ന ആപ്ലിക്കേഷൻ നിർദ്ദിഷ്ട രീതി ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ടു അതായത് നിർമ്മിച്ച മിസൈലുകൾ എന്ന് എനിക്ക് ഒരു ഉദാഹരണം നൽകാൻ കഴിയും അതിനാൽ ഞാൻ ഒരു ഉദാഹരണം നൽകുന്നു ഇറാഖുമായുള്ള യുദ്ധമേളയിൽ വളരെ മുമ്പുതന്നെ ഉപയോഗിച്ചിരുന്ന ഈ സ്കഡ് മിസൈലുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം അതിനാൽ ഈ സ്കഡ് മിസൈലുകൾക്ക് നിയന്ത്രണ സംവിധാനത്തിന്റെ ഭാഗമായി ചില FPGA മാർഗ്ഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ ആ FPGA കൾ അവരുടെ പ്രോഗ്രാമബിലിറ്റി കാരണം എന്തുചെയ്യുന്നു അതിനാൽ മിസൈലുകൾ അതിന്റെ ഭാഗമാകുമ്പോൾ പരിസ്ഥിതിയെ ആശ്രയിച്ച് ടാർഗെറ്റിന്റെ സ്ഥാനത്തെ ആശ്രയിച്ച് ടാർഗെറ്റുകകൾക്കും നീങ്ങാൻ കഴിയും അതിനാൽ അതിന്റെ പ്രോഗ്രാം ആന്തരികമായി മാറ്റാൻ കഴിയും FPGA കോൺഫിഗറേഷൻ ഡയനാമിക്കലി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് അതിനാൽ ഈ സ്കഡ് വളരെ കൃത്യമായി ലക്ഷ്യത്തിലെത്താൻ കഴിയും അതിനാൽ FPGA കൾ തത്സമയ സാഹചര്യങ്ങളിൽ വളരെ കർശനമായ ചില സമയ പരിമിതികളോടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇത് അതിനൊപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്ത ഡിസൈൻ ടൂൾ ഉണ്ട് അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സിന്തസിസ് ലേ ഔട്ട് റൂട്ടിംഗ് ടൂളുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ FPGA ബോർഡ് അല്ലെങ്കിൽ FPGA ചിപ്പ് നിങ്ങളുടെ ഡിസൈൻ ഹാർഡ്വെയറിൽ തയ്യാറാണ് ഇത് വളരെ എളുപ്പമുള്ള ജോലിയാണ് ഈ മുഴുവൻ കാര്യത്തിനും കുറച്ച് മിനിറ്റോ പരമാവധി ഒരു മണിക്കൂറോ എടുത്തേക്കാം അതിനാൽ ഇത് സമയം ചെലവഴിക്കുന്നില്ല അതിനാൽ ഇത് ലബോറട്ടറിയിൽ വളരെ വേഗത്തിൽ പ്രോട്ടോടൈപ്പിംഗ് അനുവദിക്കുന്നു ടേൺഎറൌണ്ട് സമയം വളരെ പ്രധാനപ്പെട്ട നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് FPGA കൾ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ ആനുകൂല്യം നൽകുന്നു ഇപ്പോൾ നമുക്ക് FPGA യുടെ ഒരു കുടുംബത്തിലേക്ക് വളരെ വേഗത്തിൽ നോക്കാം അത് തീർച്ചയായും പുതിയതല്ല പക്ഷേ FPGA ചിപ്പുകളുടെ ചില പ്രധാന സവിശേഷതകൾ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഒരു റെപ്രെസെന്ററ്റീവ് ആയി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സെൻട്രൽ ബ്ലോക്കിൽ FPGA ഇതുപോലെ കാണപ്പെടുന്നതിനാൽ IO ബ്ലോക്കുകൾ ബൌണ്ടറികളിലുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ബൌണ്ടറികളിലുടനീളം ഉണ്ടായിരിക്കുമെന്നതിനാൽ ഓരോ പിന്നിനോടുമൊപ്പം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്കും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് ആ പ്രത്യേക സിഗ്നൽ ഇൻപുട്ടിന്റെയോ ഔട്ട്പുട്ടിന്റെയോ ആവശ്യാനുസരണം പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതുമാണ് അതുപോലെ അവിടെ ചില ലോജിക് സെല്ലുകൾ സാധാരണയായി അറേ ഫാഷനിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഇവ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്കുകൾ എന്ന് വിളിക്കപ്പെടുന്നു ഇവ ലോജിക് ബ്ലോക്കുകളാണ് ഇവ പ്രോഗ്രാം ചെയ്യാവുന്നവയാണ് അവ പരിഷ്കരിക്കാനാകും തീർച്ചയായും പ്രോഗ്രാം ചെയ്യാവുന്ന ഈ ലോജിക് ബ്ലോക്കുകൾ തമ്മിലുള്ള പരസ്പരബന്ധവും പ്രവർത്തനവും പരിഷ്കരിക്കാനാകും അതിനാൽ നിങ്ങൾ പ്രോഗ്രാമബിൾ ഇന്റർകണക്ടുകൾ എന്ന് വിളിക്കുന്നു FPGA ഈ CLB കൾ IO ബ്ലോക്കുകൾ പ്രോഗ്രാമബിൾ ഇന്റർകണക്ട് എന്നിവ ഉൾക്കൊള്ളുന്നുവെന്ന് പറയുക അതിനാൽ ബാഹ്യമായി നിങ്ങൾക്ക് ഈ സിഎൽബി പ്രോഗ്രാം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അവരുടെ പരസ്പരബന്ധം പ്രോഗ്രാം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഐഒ ബ്ലോക്കുകൾ പ്രോഗ്രാം ചെയ്യാൻ കഴിയും അതിനാൽ ടെക്നോളജി മാപ്പിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ഏതെങ്കിലും ഡിസൈൻ നൽകിയാൽ നിങ്ങളുടെ ഡിസൈനിന്റെ ഭാഗങ്ങൾ CLB കളിലേക്ക് മാപ്പ് ചെയ്യാനും അവ ശരിയായ രീതിയിൽ പരസ്പരം ബന്ധിപ്പിക്കാനും കഴിയും നിങ്ങളുടെ ഡിസൈൻ ഉദ്ദേശ്യം എന്താണെങ്കിലും അത് FPGA യിൽ ഹാർഡ്വെയർ ഭംഗിയായി നടപ്പിലാക്കും നമുക്ക് ഈ CLB വളരെ വേഗത്തിൽ നോക്കാം ഈ CLB കാണുക ഉള്ളിൽ ധാരാളം ബ്ലോക്കുകൾ ഉണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങളിലേക്ക് പോകാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബ്ലോക്കുകൾ ഇവിടെയുണ്ട് ഇവ രണ്ട് ഇൻപുട്ട് ലോജിക് ഫംഗ്ഷനുകൾ നടപ്പിലാക്കുന്ന രണ്ട് ബ്ലോക്കുകളാണ് അതിനാൽ ഞാൻ ഇത് എങ്ങനെ ഉടൻ നടപ്പാക്കുമെന്ന് നിങ്ങളോട് പറയാം അതിനാൽ ഈ രണ്ട് ബ്ലോക്കുകൾക്കും രണ്ട് 4 വേരിയബിൾ ലോജിക് ഫംഗ്ഷനുകൾ നടപ്പിലാക്കാൻ കഴിയും കൂടാതെ 2 ഔട്ട്പുട്ടുകൾ ഈ ലൈനുകളിൽ ലഭ്യമാകും കൂടാതെ x y പാതകൾ ഉണ്ട് കൂടാതെ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് CLB സ്റ്റോറേജ് സെല്ലായും ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചില യുക്തികൾ കണക്കാക്കാം നിങ്ങൾക്ക് ഇത് ഒരു മെമ്മറി രണ്ട് ബിറ്റ് മെമ്മറിയായും ഉപയോഗിക്കാം അല്ലെങ്കിൽ ചില ഫ്ലിപ്പ് ഫ്ലോപ്പുകളോടൊപ്പം ചില ലോജിക് ഫംഗ്ഷനുകളും ഉള്ള ചില ചെറിയ ഫൈനൈറ്റ് സെറ്റ് മെഷീനായും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം മറ്റ് മൾട്ടിപ്ലക്സറുകളും മറ്റ് ബ്ലോക്കുകളും നിങ്ങൾ കാണുന്നു അവ പ്രോഗ്രാമിംഗിനായി ഉപയോഗിക്കുന്നു അതിനാൽ പുറത്ത് നിന്ന് നിങ്ങൾക്ക് ചില സിഗ്നലുകൾ നൽകാം അങ്ങനെ ഈ പരസ്പരബന്ധം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കൃത്യമായി മാറ്റാനോ പ്രോഗ്രാം ചെയ്യാനോ കഴിയും അതിനാൽ ഇവയിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം അതിനാൽ ഈ 2 ബ്ലോക്കുകളിൽ രണ്ട് 4 ഇൻപുട്ട് ഫംഗ്ഷനുകൾ നടപ്പിലാക്കുന്നതിനുള്ള ഈ CLB യുടെ അടിസ്ഥാന സവിശേഷതകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 4 ഇൻപുട്ട് ഫംഗ്ഷനുകൾ 16 മുതൽ 1 റാം വരെ ഉപയോഗിച്ച് ലുക്ക് അപ്പ് ടേബിളുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു അതിനാൽ ഇവിടെ ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കും 16 ബിറ്റ് മെമ്മറി നടപ്പിലാക്കാനും ഇത് ഉപയോഗിക്കാം അതിനാൽ ഇത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട് ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഇവിടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഒരു ബ്ലോക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ലാച്ച് ലെവൽ സെൻസിറ്റീവ് ലാച്ച് ആയി ക്രമീകരിക്കാം അതിനാൽ ക്ലോക്കിന്റെ ലീഡിങ് എഡ്ജിലോ അല്ലെങ്കിൽ ഫാളിംഗ് എഡ്ജിലോ ട്രിഗർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം സെറ്റ് റീസെറ്റ് സിൻക്രൊണസ് അല്ലെങ്കിൽ അസിൻക്രണസ് ആകാം അതിനാൽ ഇത് പൂർണ്ണമായും പ്രോഗ്രാമബിൾ ആണ് ഇപ്പോൾ ലുക്ക് അപ്പ് ടേബിൾസ് നോക്കാം ഞാൻ മുൻ സ്ലൈഡിൽ സൂചിപ്പിച്ചിരുന്നു ഈ 4 ബിറ്റ് ലുക്ക്അപ്പ് ടേബിളിന് 4 ഇൻപുട്ട് ലോജിക് ഫംഗ്ഷൻ നടപ്പിലാക്കാൻ കഴിയും അല്ലെങ്കിൽ 16 ബൈ 1 മെമ്മറി റാം ആയി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം അതിനാൽ CLB യുടെ സിംപ്ലിഫൈഡ് ഡയഗ്രം ആണിത് ഞാൻ നേരത്തെയുള്ള ഡയഗ്രാമിൽ കാണിച്ചതുപോലെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ അവ പ്രധാനമായും പ്രോഗ്രാമിംഗിനായി ഉപയോഗിക്കുന്നു എന്നാൽ ഒരു CLB ൽ 4 ഇൻപുട്ട് ലുക്ക്അപ്പ് ടേബിൾ ആവശ്യമെങ്കിൽ ബൈപാസ് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ക്ലോക്ക് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് മൾട്ടിപ്ലക്സറുകൾ എന്നിവ ഉണ്ടാകും അതിനാൽ ഈ LUT എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ പ്രധാനമായും LUT ഇതുപോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു LUT ൽ 4 ഇൻപുട്ടുകൾ A B C യും D ഉം ഉണ്ടാകും അതിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും നമുക്ക് F എന്ന് പറയാം എന്നാൽ ആന്തരികമായി എന്താണ് ഉള്ളത് അതിനാൽ ആന്തരികമായി നമുക്ക് ഇതുപോലൊന്ന് ഉണ്ട് അത് ഒരു ബ്ലോക്ക് ആണ് അത് 4 ടു 16 ഡീകോഡർ ആണ് അതിനാൽ ഈ ഡീകോഡർ എ ബി സി ഡി ഇൻപുട്ടുകളായി എടുക്കും കൂടാതെ 16 ബൈ 1 മെമ്മറി യൂണിറ്റ് റാം ഉണ്ട് 16 സെല്ലുകൾ ഉണ്ട് അതിനാൽ അഡ്രസ് 0 1 2 മുതൽ 15 വരെ ഈ ഡീകോഡറിൽ 16 ഔട്ട്പുട്ടുകൾ ഉണ്ടായിരിക്കും അത് ഒരു സെല്ലിൽ ഒന്ന് തിരഞ്ഞെടുക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് സെല്ലും ഔട്ട്പുട്ടായി ലഭിക്കുന്നതാണ് ഇത് നിങ്ങളുടെ F ആയിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഈ LUT ഇതുപോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് A B C D യെ ആശ്രയിച്ച് ഒരു ഡീകോഡർ ഉണ്ട് നിങ്ങൾ മെമ്മറി സെല്ലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കും അതിനാൽ ഓരോന്നും ഒരു ബിറ്റിന് തുല്യമായിരിക്കും കൂടാതെ നിങ്ങൾ F ആയി എടുക്കുന്ന മെമ്മറിയുടെ ഔട്ട്പുട്ടിൽ ആ ഒരു ബിറ്റ് ലഭ്യമാകും ഇപ്പോൾ നിങ്ങൾ ഈ LUT കാണുന്നു ഒരു റാം ആയി നടപ്പിലാക്കുന്നു അതിനാൽ എന്താണ് നേട്ടങ്ങൾ ബാഹ്യമായി നിങ്ങൾക്ക് കുറച്ച് ബിറ്റ് പാറ്റേൺ ഉപയോഗിച്ച് റാം ലോഡുചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ മാറ്റാൻ കഴിയും അതാണ് നേട്ടം എ ബി സി ഡി F fA B C D ന്റെ ചില പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുക അതിനാൽ ഞാൻ എന്തുചെയ്യും അതിനാൽ ഞാൻ ട്രൂത് ടേബിൾ വരയ്ക്കുന്നു അതിനാൽ എ ബി സി ഡി യുടെ സാധ്യമായ 16 കോമ്പിനേഷനുകൾക്കായി ഞാൻ പ്രതീക്ഷിക്കുന്ന എഫ് എന്താണെന്ന് ഞാൻ എഴുതുന്നു എന്റെ പ്രതീക്ഷിച്ച എഫ് 0 0 0 0 0 ഔട്ട്പുട്ട് 0 ആയിരിക്കണം 0 0 0 1 ഔട്ട്പുട്ട് 1 ആയിരിക്കണം 2 ന് 1 ആയിരിക്കണം 3 ഇത് 0 ആയിരിക്കണം ഇത് 1 ഇത് 0 ആണ് അതിനാൽ ട്രൂത് ടേബിളിലെ ഔട്ട്പുട്ട് കോളം എന്തായാലും ഞാൻ അതേ ബിറ്റ് പാറ്റേൺ ഈ റാമിൽ ലോഡ് ചെയ്യുന്നു അതിനാൽ ഞാൻ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഞാൻ ഈ പ്രവർത്തനം ശരിയായി നടപ്പിലാക്കി അതിനാൽ ഈ CLB അല്ലെങ്കിൽ LUT ന്റെ ഈ പ്രോഗ്രാമബിലിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു കൂടാതെ LUT ഒരു റാം ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത് കൂടാതെ ഏതെങ്കിലും ബിറ്റ് പാറ്റേൺ റാമിൽ ലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഏത് ട്രൂത് ടേബിളും നടപ്പിലാക്കാൻ കഴിയും അതിനാൽ 4 വേരിയബിളുകൾ വരെയുള്ള ഏത് പ്രവർത്തനവും ഒരു LUT ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും ഇപ്പോൾ കൂടാതെ എനിക്ക് ഇത് 16 ബൈ 1 റാം ആയി ഉപയോഗിക്കാം അഡ്രസ് ഇൻപുട്ടുകളായി ഞാൻ എ ബി സി ഡി ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച് എനിക്ക് കുറച്ച് ഡാറ്റ വായിക്കാൻ കഴിയും ഇതുപയോഗിച്ച് എനിക്ക് കുറച്ച് ഡാറ്റ എഴുതാനും കഴിയും അതിനാൽ എനിക്ക് ഒരേ LUT ഘടന ഒരു ക്രമരഹിതമായ ആക്സസ് മെമ്മറിയായി 16 ലൊക്കേഷനുകൾ വീതം ഒരു ബിറ്റ് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട നിരവധി ഡിസൈനുകൾ ഉണ്ടെന്ന് കാണുക മെമ്മറി സബ്സിസ്റ്റം മെമ്മറി യൂണിറ്റുകൾ അതിനാൽ ഇത്തരത്തിലുള്ള LUT കൾ ആ ചെറിയ മെമ്മറികൾ നന്നായി സൃഷ്ടിക്കാൻ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാം അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് 4 വേരിയബിളുകളുടെ ആർബിറ്ററി ഫങ്ക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് പറയട്ടെ അതിനാൽ LUT ലേക്ക് ഈ ഫംഗ്ഷൻ മാപ്പിംഗ് ചെയ്യുന്നത് വളരെ ലളിതമാണ് നിങ്ങൾ ഈ ഫംഗ്ഷന്റെ ട്രൂത് ടേബിൾ സൃഷ്ടിക്കുന്നു ട്രൂത് ടേബിളിന്റെ ഔട്ട്പുട്ട് നിര ഈ സ്റ്റാറ്റിക് റാമിലേക്ക് LUT യ്ക്ക് അനുബന്ധമായി ലോഡ് ചെയ്യുക നിങ്ങളുടെ LUT ഇത് നടപ്പിലാക്കിയുകഴിഞ്ഞാൽ പ്രവർത്തനം മറ്റൊന്നും ചെയ്യാനില്ല അതിനാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് 4 വേരിയബിൾ ഫംഗ്ഷനും തിരിച്ചറിയാൻ കഴിയും നെറ്റ് ലിസ്റ്റ് ടു എൽ ടി മാപ്പിംഗ് വളരെ രസകരമാണ് അതിനാൽ ഞാൻ ഹ്രസ്വമായി വിശദീകരിക്കാൻ ശ്രമിക്കാം നിങ്ങൾ സാധാരണ FPGA മറക്കുക സാധാരണ ഗേറ്റുകളെക്കുറിച്ച് ചിന്തിക്കുക എനിക്ക് ഒരു ഫംഗ്ഷൻ നടപ്പിലാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കരുതുക എന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എനിക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ചില തരം ഗേറ്റുകൾ ഉണ്ട് ഉദാഹരണത്തിന് CMOS ൽ എനിക്ക് NAND NOR ഇത്തരത്തിലുള്ള ഗേറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയില്ല കൂടാതെ അല്ലെങ്കിൽ ഇവ നടപ്പിലാക്കുന്നത് എളുപ്പമല്ല അതിനാൽ ഞാൻ എപ്പോഴും എന്റെ യഥാർത്ഥ പ്രവർത്തന വിവരണം NAND NOR ഗേറ്റുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സർക്യൂട്ടിലേക്ക് മാപ്പ് ചെയ്യാൻ ശ്രമിക്കും ഈ പ്രക്രിയയെ ടെക്നോളജി മാപ്പിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ എനിക്ക് എന്തുചെയ്യാനാകുമെന്ന് അല്ലെങ്കിൽ എനിക്കറിയാവുന്നതെന്താണെന്ന് എനിക്കറിയാം അതിനാൽ എന്റെ യഥാർത്ഥ സ്പെസിഫിക്കേഷൻ ഞാൻ ആ ഫങ്ക്ഷണൽ ബ്ലോക്കുകളോ സെല്ലുകളോ ഉപയോഗിച്ച് മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിനെ ടെക്നോളജി മാപ്പിംഗ് എന്ന് വിളിക്കുന്നു എന്നാൽ FGPA യ്ക്ക് ടെക്നോളജി മാപ്പിംഗിന്റെ മുഴുവൻ ആശയവും വ്യത്യസ്തമായി മാറിയിരിക്കുന്നു ഇപ്പോൾ 4 വേരിയബിളുകളുള്ള ഏത് ഉപ പ്രവർത്തനങ്ങളും എനിക്ക് LUT ലേക്ക് മാപ്പ് ചെയ്യാൻ കഴിയും സ്പെസിഫിക് ഗേറ്റുകളെക്കുറിച്ചോ ഫങ്ക്ഷണനുകളെക്കുറിച്ചോ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഒരു AND ഗേറ്റ് OR ഗേറ്റ് NAND ഗേറ്റ് അല്ലെങ്കിൽ NOR ഗേറ്റ് എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനാൽ മാപ്പിംഗ് വളരെ ലളിതമായിത്തീരുന്നു അതിനാൽ ഞാൻ ഒരു ഉദാഹരണം എടുക്കട്ടെ ഇത് ഏരിയ ഡിലെ ട്രേഡ്ഓഫ് വിശദീകരിക്കും ഞാൻ ഒരു നെറ്റ്ലിസ്റ്റ് കാണിക്കുന്നു ഈ ചെറിയ ദീർഘചതുരങ്ങൾക്ക് ചില ഗേറ്റുകളെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാം ഏത് തരത്തിലുള്ള ഗേറ്റ് AND ഗേറ്റ് OR ഗേറ്റ് ഇത് എക്സ്ക്ലൂസീവ് OR ഗേറ്റ് ആകാം ഏതെങ്കിലും സങ്കീർണ്ണമായ ഗേറ്റുകൾ ആകാം ഞാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ യഥാർത്ഥ നെറ്റ്ലിസ്റ്റ് ഇതാണ് ബദലുകളുണ്ടെന്ന് പറയട്ടെ അതിനാൽ ഞാൻ FPGA LUT എന്ന ഈ ഗേറ്റുകൾ മാപ്പ് ചെയ്യുമ്പോൾ ഒരു സാധ്യത എനിക്ക് ഈ LUT ലേക്ക് മാപ്പ് ചെയ്യാൻ കഴിയുന്ന ഈ മൂന്ന് ഗേറ്റുകളായിരിക്കാം എന്തുകൊണ്ട് ഈ സെറ്റിൽ നിങ്ങൾ കാണുന്നതുപോലെ മൊത്തം ഇൻപുട്ടുകളുടെ എണ്ണം 4 ആണ് കൂടാതെ ഒരൊറ്റ ഔട്ട്പുട്ടും ഉണ്ട് അതിനാൽ എനിക്ക് അത് LUT ലേക്ക് മാപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ ഇത് നോക്കൂ 4 ഇൻപുട്ടുകളും 1 ഔട്ട്പുട്ടും ഉണ്ട് അതിനാൽ എനിക്ക് ഇത് 1 LUT ആയി മാപ്പ് ചെയ്യാൻ കഴിയും ബാക്കിയുള്ളത് ഈ 2 ഇൻപുട്ടുകളും 1 ഔട്ട്പുട്ടും ആണ് നിങ്ങൾക്ക് LUT ലേക്ക് മാപ്പ് ചെയ്യാനും കഴിയും അതിനാൽ എനിക്ക് 2 LUT ഡിലെയോടെ 3 LUT കൾ ആവശ്യമാണ് കാരണം ഈ 2 LUT കളുടെ ഔട്ട്പുട്ട് ഈ LUT ലേക്ക് ഇൻപുട്ട് ആയി പോകുന്നു അതിനാൽ ഡിലെ 2 യൂണിറ്റായിരിക്കും പക്ഷേ എന്റെ മാപ്പിംഗ് അല്പം വ്യത്യസ്തമാണെന്ന് പറയട്ടെ ഞാൻ ഈ മൂന്നും വീണ്ടും 1 LUT ആയി മാപ്പ് ചെയ്യുന്നു ഈ 3 ഞാൻ 1 LUT ആയി മാപ്പ് ചെയ്യുന്നുവെന്ന് പറയട്ടെ ഇതും 4 ഇൻപുട്ടുകൾ ഒരു ഔട്ട്പുട്ട് ആണ് നമ്മൾ ഈ 2 നെ മൂന്നാമത്തെ LUT ആയി മാപ്പ് ചെയ്യുന്നു ഇത് ഒരു മുന്നോട്ടുള്ള LUT ആയി പറയട്ടെ അതിനാൽ ഇത് വളരെ മികച്ച മാപ്പിംഗ് ആയിരിക്കില്ല ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എനിക്ക് 4 LUT യുടെ ഡിലെ 3 ആയിരിക്കും കാരണം ഈ ആദ്യ LUT രണ്ടാമത്തെ LUT യ്ക്ക് നൽകുന്ന ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു ഇത് മൂന്നാം LUT ന് നൽകുന്ന ഒരു ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു അതിനാൽ കാലതാമസവും കൂടുതലാണ് അതിനാൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ മാപ്പിംഗ് ഒരു ഗ്രാഫ് പ്രതിനിധീകരിക്കുന്ന ഒരു നെറ്റ്ലിസ്റ്റ് നൽകിയാൽ തികച്ചും വ്യത്യസ്തമാണ് എല്ലാ സബ് ഗ്രാഫിലും 4 ഇൻപുട്ടുകളും 1 ഔട്ട്പുട്ടും വരെ ഉണ്ടായിരിക്കേണ്ട വിധത്തിൽ ഞാൻ ഈ ഗ്രാഫ് വിഭജിക്കേണ്ടതുണ്ട് തീർച്ചയായും ഡെപ്ത് അല്ലെങ്കിൽ ഡിലെ കുറയ്ക്കണം അതിനാൽ ആധുനിക FPGA ചിപ്പുകളിൽ LUT യുടെ സ്കാൻ ലൈനുകളുടെ എണ്ണം വർദ്ധിച്ചു അതിനാൽ നിങ്ങൾക്ക് 5 മുതൽ 6 വരെ ആകാം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇപ്പോൾ IO ബ്ലോക്ക് ഡയഗ്രാമിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഞാൻ വിശദമായി പോകുന്നില്ല അതിനാൽ IO ബ്ലോക്ക് ഡയഗ്രം ഇതുപോലെ കാണപ്പെടുന്നു ഇത് ഇൻപുട്ട് പിൻ ആണ് ലാച്ച് ചെയ്ത ധാരാളം സർക്യൂട്ടുകൾ ഉണ്ട് ചില ഔട്ട്പുട്ടുകൾ ഇവിടെ ചില ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഇവിടെ ട്രൈ സ്റ്റേറ്റ് കൺട്രോളറുകൾ ഉണ്ട് പ്രോഗ്രാമബിൾ ആയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് FPGA റൂട്ടിംഗിനായി വീണ്ടും ഈ CLB കൾ കോൺഫിഗറേഷൻ ലോജിക് ബ്ലോക്ക് ആണ് അവയ്ക്കിടയിൽ ചില ഇന്റർകണക്ഷൻ ലൈനുകൾ ഉണ്ട് കൂടാതെ ജംഗ്ഷനുകളിൽ ചില പ്രോഗ്രാമബിൾ സ്വിച്ച് മെട്രിക്സ് ഉണ്ട് അതിനാൽ വീണ്ടും ബാഹ്യമായി എനിക്ക് സ്വിച്ച് മാട്രിക്സ് പ്രോഗ്രാം ചെയ്യാൻ കഴിയും ഇവയിൽ ചിലത് നിരകൾ ചില വരികളുമായി ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഇതിലൂടെ ചില CLB പിന്നുകൾ മറ്റ് ചില CLB പിൻകളുമായി ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ എനിക്ക് ഇതുപോലുള്ള ചില പരസ്പരബന്ധങ്ങൾ നടത്താൻ കഴിയും ഈ സ്വിച്ച് മാട്രിക്സ് സാധാരണയായി SRAM ഉപയോഗിച്ച് വീണ്ടും മെമ്മറിയിൽ ചില ബിറ്റുകൾ ലോഡുചെയ്ത് എനിക്ക് കണക്ഷനുകൾ സ്വിച്ച് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ കഴിയും ഒരു വരി ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കണക്ഷൻ ബന്ധിപ്പിക്കുക അതിനാൽ ചില FPGA നിർമ്മാതാക്കളും ആന്റി ഫ്യൂസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു അതിനാൽ FPGA ഡിസൈൻ ഫ്ലോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ FPGA ഡെവലപ്മെന്റ് ബോർഡുകളോടൊപ്പം നൽകിയിരിക്കുന്ന സോഫ്റ്റ്വെയർ സ്കീമാറ്റിക് VHDL അല്ലെങ്കിൽ വെരിലോഗ് ഉപയോഗിച്ച് പ്രവേശനം രൂപകൽപ്പന ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നു മുഴുവൻ പ്ലെയ്സ്മെന്റും റൂട്ടിംഗും യാന്ത്രികമായി നടപ്പിലാക്കുന്നു എല്ലാ ബ്ലോക്കുകളും പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ബിറ്റ് സ്ട്രീം അതും സ്വയമേവ സൃഷ്ടിക്കപ്പെടുന്നു അത് വിശാലമായി ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുടെയും അനുകരണവും പലർക്കും പുനfക്രമീകരിക്കുന്നതിന്റെ എണ്ണവും നിങ്ങൾക്ക് വിശകലനം ചെയ്യാം FPGA സിസ്റ്റങ്ങൾ സാധാരണയായി പരിധിയില്ലാത്തതാണ് നിങ്ങൾക്ക് ഇത് നിരവധി തവണ ചെയ്യാൻ കഴിയും അതിനാൽ കോൺഫിഗറബിലിറ്റിയുടെയും ഉപയോഗ എളുപ്പത്തിന്റെയും കാര്യത്തിൽ FPGA ഒരു വലിയ നേട്ടം നൽകുന്നു അതിനാൽ അടുത്ത പ്രഭാഷണം നമുക്ക് ലഭ്യമായ മറ്റ് ചില ഡിസൈൻ സ്റ്റൈൽസുകൾ നോക്കാം